കൺവെർജൻസ് ഓഫ് ഫോറിയർ സീരീസ് - I ഓക്കേ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2 ലെ ലെക്ചർസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇത് ലെക്ചർ 34 ഫോറിയർ സീരീസിന്റെ കൺവെർജൻസിനെക്കുറിച് കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ കണ്ടത് ഫോറിയർ സീരീസിന്റെ നിർമ്മാണമാണ് മാത്രമല്ല നിർമാണ സമയത്ത് സീരീസിന്റെ ഇന്റഗ്രൽ ഫംഗ്ഷനെയും സീരീസിന്റെ ടേം ഇന്റഗ്രേഷനെയും സമീകരിച്ച് നമുക്ക് ആ കോഎഫിഷ്യന്റ്സ് ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ നിരീക്ഷിച്ചു അതിനാൽ സ്വാഭാവികമായും ഫംഗ്ഷൻ മൂല്യം ഒത്തുചേരുകയാണെങ്കിൽ സീരീസിന്റെ മൂല്യത്തിന് തുല്യമാകുമെന്ന് നമുക് പ്രതീക്ഷിക്കാൻ കഴിയില്ല അതിനാൽ ഈ ലെക്ചറിൽ നമ്മൾ ഈ കൺവെർജൻസ് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കും പ്രത്യേകിച്ചും നമ്മൾ ഫൊറിയർ സീരീസിന്റെ കൺവെർജൻസിനെക്കുറിച്ചുള്ള ഭാഗം ഉൾപ്പെടുത്തും ഇവയാണ് കൺവെർജൻസിന് പര്യാപ്തമായ വ്യവസ്ഥകൾ എന്ന ഡിറിച്ലെറ്റിന്റെ പ്രസിദ്ധമായ ഒരു ഫലമുണ്ട് ഈ സാഹചര്യങ്ങളിൽ സീരീസ് കൺവെർജ് ചെയ്യും തന്നിരിക്കുന്ന ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഏത് മൂല്യവുമായി അത് കൺവെർജ് ചെയ്യുമെന്ന് നമ്മൾ കണ്ടുപിടിക്കും അതിനാൽ ഉദാഹരണത്തിന് വീണ്ടും അത്തരം ഒരു ഫംഗ്ഷൻ f നമ്മൾ പരിഗണിക്കുന്നു ഇത് − 2≤ x 0 യിലെ − cos x ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ cos x 0 ≤ x ≤ 2ലും അതിനാൽ 0 മുതൽ 2 വരെയുള്ള സാഹചര്യം നമുക് ഉണ്ട്നമ്മൾ ഇത് 2 ആയി എടുത്താൽ ഇതാണ് 2 പിന്നീട് 0 മുതൽ 2 വരെ അത് cos x ആണ് അതിനാൽ ഇതാണ് ഫംഗ്ഷൻ തുടർന്ന് ഈ ഇവിടെ −2≤ x 0 ആണ് ഇത് cosx ആണ് അതിനാൽ cos x സാധാരണയായി അവിടെ പോസിറ്റീവ് ആണ് നമ്മൾ ഇപ്പോൾ അതിന്റെ ′ − ′ എടുക്കുന്നു അതിനാൽ ഇത് ഈ രീതിയിൽ പോകും അതിനാൽ നമുക്ക് ഈ ഫംഗ്ഷൻ f 0 ≤ x ≤ 2 ൽ cos x ഉം −2≤ x 0 ൽ cos x ഉം നൽകിയിട്ടുണ്ട് പിന്നെ ഇത് ആവർത്തനമാണെന്ന് നമുക്ക് പറയാം കാരണം ഈ പിരീഡ് ഇവിടെ π മുതൽ 2x 2വരെയും തുടർന്നും ഈ മൂല്യങ്ങൾ ആവർത്തിക്കപ്പെടും അതിനാൽ ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ fx π f ആണ് ഈ കേസിൽ ഫംഗ്ഷൻ ഒരു ഒറ്റപ്പെട്ട ഫംഗ്ഷനാണ് നമ്മൾ ചിത്രത്തിൽ കണ്ടതുപോലെ ഇത് ഒരു ഒറ്റപ്പെട്ട ഫംഗ്ഷനാണ് അതിനാൽ ഇത് an നമ്മൾ an കണക്കുകൂട്ടുകയാണെങ്കിൽ മുമ്പത്തെ ലെക്ചറിൽ നമ്മൾ സമാനമായ ചർച്ച നടത്തിയിട്ടുണ്ട് അതിനാൽ നമ്മൾ ഈ an കണക്കുകൂട്ടുകയാണെങ്കിൽ ഈ കേസിൽ ഇത് 2ആകും കൂടാതെ നമ്മൾ ഇതിനെ −2മുതൽ 2 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ f നെയും പിന്നെ an നെയും അതിനാൽ ഇത് cos 2nx ആകും കൂടാതെ നമുക് dx കിട്ടും അതിനാൽ ഈ cos 2nx ഒരു ഈവൻ ഫംഗ്ഷനും f ഒരു ഓട് ഫംഗ്ഷനുമാണ് അതിനാൽ ഇതിന്റെ പ്രോഡക്റ്റ് ഓട് തന്നെ ആയിരിക്കും അതിനാൽ ഈ ഇന്റഗ്രൽ −2മുതൽ 2 വരെ ഓട് ഫംഗ്ഷൻ ആണ് അതിനാൽ ഈ ഇന്റഗ്രൽ മൂല്യം 0 ആയിരിക്കും അതിനാൽ ഈ anന്റെ ഫൊറിയർ കോഎഫിഷ്യന്റുകൾ n 0123 എന്നിങ്ങനെ ആയിരിക്കും പിന്നെ നമുക്ക് മറ്റ് ഫൊറിയർ കോഎഫിഷ്യന്റുകൾ കണക്കാക്കാം അതിനാൽ bn കൂടാതെ നമുക്ക് ഈ ഫോർമുല 2−22f sin 2nx dx ഉപയോഗിക്കാം അതിനാൽ an ൽ നമുക്ക് ഇവിടെ ഇപ്പോൾ cos ഉണ്ട് sine ഉണ്ട് അതാണ് ആകെയുള്ള വ്യത്യാസം അതിനാൽ വീണ്ടും നമുക് ഇത് കണക്കുകൂട്ടാം ഇത് ഓട് ആകും മാത്രമല്ല ഇതും ഓട് ആണ് ഇത് നമുക് രണ്ടു തവണ ഉണ്ട് അതിനാൽ 2 × 2 4ആണ് തുടർന്ന് 0 മുതൽ 2 വരെ ആ സാഹചര്യത്തിൽ 0 മുതൽ 2 വരെ f ന്റെ മൂല്യം ഫംഗ്ഷൻ cos x ആണ് തുടർന്ന് sin 2nx dx എന്നിവ കൂടാതെ ഈ ഇന്റഗ്രൽ എളുപ്പത്തിൽ വിലയിരുത്താനാകും കൂടാതെ നമ്മൾ ഇവിടെ എല്ലാ ഘട്ടങ്ങളും കാണിക്കുന്നില്ല അതിനാൽ ഒടുവിൽ ഈ ഫംഗ്ഷന്റെ മൂല്യം 8n4n2 1 ഇതായിരിക്കും അതിനാൽ ഇത് ഉപയോഗിച്ച് ഇപ്പോൾ നമുക്ക് ഫോറിയർ സീരീസ് എഴുതാം അതിനാൽ ഫോറിയർ സീരീസിന് bn നിബന്ധനകൾ മാത്രമേ ഉണ്ടാകൂ അതായത് n1bn sin 2nx അതിനാൽ ഇവിടെ ഫംഗ്ഷന്റെ പിരീഡ് π ആണ് 2π അല്ല അതിനാൽ നമുക് ഈ 2n പദങ്ങൾ ഇവിടെയും ലഭിക്കുന്നു ഈ 2π ഘടകം വരുന്നു അതിനാൽ നമുക് ഈ ഫൊറിയർ സീരീസ് പ്രാതിനിധ്യം ഉണ്ട് തുടർന്ന് bn ന്റെ മൂല്യം കൊടുക്കുമ്പോൾ നമുക്ക് 8n1n sin 2nx4n2 1ലഭിക്കും അതിനാൽ ഈ ഫൊറിയർ സീരീസ് നമുക്കുണ്ട് തന്നിരിക്കുന്ന ഫംഗ്ഷൻ f − cos x ൽ −2≤ x 0 യും cos x ൽ 0 ≤ x ≤ 2 വും ആയി പ്രതിനിധീകരിക്കാം ഈ ഫോറിയർ സീരീസിനായി നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഈ സൈൻ ഫംഗ്ഷൻ കാരണം നമ്മൾ x 0 അല്ലെങ്കിൽ x 0 ൽ സീരീസ് വിലയിരുത്തുകയാണെങ്കിൽ x 0 ഇവിടെ കൊടുത്താൽ എന്ത് സംഭവിക്കും സൈൻ 0 ആകും ഇവിടെ എല്ലാം മൊത്തം തുക x 0 ൽ 0 ആകും അതിനാൽ സീരീസിൽ 0 x 0 എന്ന മൂല്യത്തിലേക്ക് ചേരുന്നതിനെയാണ് കൺവെർജെൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത് എന്നിരുന്നാലും നമ്മൾ ഇവിടെ ഫംഗ്ഷൻ ശ്രദ്ധിച്ചാൽ 0 ൽ ഫംഗ്ഷൻ മൂല്യം ഇവിടെ നിന്ന് വിലയിരുത്താനാകും അത് cos 0 ആണ് അത് 1 ആയിരിക്കും കൂടാതെ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം നിർമ്മിക്കുന്ന സമയത്ത് ഈ an′s ഉം bn′s ഉം f മായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അർത്ഥത്തിൽ ഇന്റഗ്രൽസ് 0 ന് തുല്യമായി സജ്ജീകരിച്ചിരിക്കുന്നു സീരീസിന്റെ ഫംഗ്ഷൻ മൂല്യം തുല്യമായി സജ്ജീകരിച്ചിട്ടില്ല അതിനാൽ സ്വാഭാവികമായും കൺവെർജെൻസിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം അത് പോലെ ഈ ഘട്ടത്തിൽ തന്നെ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് x 0 ൽ സീരീസ് വ്യക്തമായി 0 ആയി കൺവെർജ് ചെയ്യുന്നു അതേസമയം ഫംഗ്ഷൻ മൂല്യം 0 ൽ 1 ആണ് അതിനാൽ നമ്മൾ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യും അതിനാൽ f ന്റെ ഫൊറിയർ സീരീസ് x 0 ൽ ഫംഗ്ഷന്റെ മൂല്യത്തിലേക്ക് കൺവെർജ് ചെയ്യുന്നില്ല ഉദാഹരണത്തിന് ഈ കേസിൽ ഫൊറിയർ സീരീസ് ഫംഗ്ഷൻ മൂല്യത്തിലേക്ക് ഒത്തുചേരാത്ത അത്തരം നിരവധി കേസുകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും ഈ ഫംഗ്ഷനും ചില മൂല്യങ്ങൾക്കുമായി ഒരു പ്ലോട്ട് എടുക്കുക സ്വാഭാവികമായും ∞ അല്ല അതിനാൽ നമ്മൾ ഇവിടെ 5 നിബന്ധനകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ 5 നിബന്ധനകളുണ്ട് ഇതാണ് ഫോറിയർ സീരീസ് ഇത് ഫൊറിയർ സീരീസിന്റെ ഗ്രാഫിനെ പ്രതിനിധീകരിക്കുന്ന ഫൊറിയർ സീരീസ് ആണ് ഇത് കോസ് ഫംഗ്ഷൻ ആയിരുന്നു അതിനാൽ ഇത് f തന്നിരിക്കുന്ന ഫംഗ്ഷൻ f അതിനാൽ 0 ൽ നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ ഫോറിയർ സീരീസിന്റെ മൂല്യം 0 ആണ് നമുക്ക് പദങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയും പക്ഷേ ഇത് എല്ലായ്പ്പോഴും ഈ പോയിന്റ് 0 യിലൂടെ കടന്നുപോകും ഇത് ഈ സീരീസിന്റെ സ്വഭാവത്തിൽ നിന്ന് വ്യക്തമാണ് കാരണം സൈൻ ഉണ്ട് sin 0 0 ആണ് അതിനാൽ സീരീസിൽ നമ്മൾ എത്ര നിബന്ധനകൾ എടുക്കുന്നു എന്നത് പരിഗണിക്കാതെ ഇത് എല്ലായ്പ്പോഴും ഈ 0 സൃഷ്ടിക്കും ഈ മേഖലയിൽ മികച്ച മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ഇത് ഈ 0 ൽ നിന്ന് എപ്പോഴും കടന്നുപോകും അതിനാൽ ഇതിന് ഈ കൺവെർജെൻസ് പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം 0 ൽ ഇവിടെ ഫംഗ്ഷൻ മൂല്യം 1 ആണ് അതായത് f 1 എന്നാൽ ഇത് എല്ലായ്പ്പോഴും തുടക്കത്തിൽ നിന്ന് കടന്നുപോകും ശരി ഇപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും ചില ചോദ്യങ്ങളുണ്ട് f എന്ന ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് ഒരു പോയിന്റ് x ൽ കൺവെർജ് ചെയ്യുന്നുണ്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫൊറിയർ സീരീസ് എപ്പോഴും ഏതെങ്കിലും x ∈ −L Lൽ കൺവെർജ് ചെയ്യുന്നുണ്ടോ എന്നതാണ് വീണ്ടും സീരീസ് കൺവെർജ് ചെയ്യുന്നുവെങ്കിൽ രണ്ട് ചോദ്യങ്ങളുണ്ട് കൺവെർജിനെക്കുറിച്ച് ഫോറിയർ സീരീസ് എല്ലായ്പ്പോഴും ഇന്റെർവെല്ലിൽ നിന്ന് x ആയി കൺവെർജ് ചെയ്യുമോ അതോ കൺവെർജ് ചെയ്യുകയാണെങ്കിൽ സീരീസിന്റെ ആകെത്തുക f ന് തുല്യമാണോ കൂടാതെ ഇത് f ന് തുല്യമല്ലെന്ന് മുമ്പത്തെ ഉദാഹരണത്തിൽ നമ്മൾ കണ്ടതാണ് X 0 ൽ നമ്മൾ ചില ഘട്ടങ്ങളിൽ പരിശോധിച്ചു തുക നമ്മുടെ ഉദാഹരണത്തിൽ 1 ആയിരുന്ന ഫംഗ്ഷനു മൂല്യത്തിന് തുല്യമല്ല അതിനാൽ തീർച്ചയായും ഈ ചോദ്യത്തിന് ഉത്തരം ഇല്ല കൂടാതെ ആദ്യ ചോദ്യത്തിനും ഉത്തരം ഇല്ല കാരണം ഫോറിയർ സീരീസ് കൺവെർജ് ചെയ്യാത്ത ഫംഗ്ഷനുകൾ ഉണ്ട് കാരണം മുൻപത്തേ ലെക്ചറിൽ നമ്മൾ മനസ്സിലാക്കിയത് സുഗമമായ ഒരു ഫംഗ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഫൊറിയർ സീരീസ് എഴുതാൻ പര്യാപ്തമാണ് അതിനാൽ തന്നിരിക്കുന്ന സുഗമമായ ഫംഗ്ഷൻ നമുക്ക് എല്ലായ്പ്പോഴും ഒരു ഫൊറിയർ സീരീസ് നിർമ്മിക്കാൻ കഴിയും പക്ഷേ ആ സീരീസ് കൺവെർജ് ചെയ്യുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം അത് കൺവെർജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എഴുതിയ ഫംഗ്ഷനിലേക്ക് ആ സീരീസ് കൺവെർജ് ചെയ്യുമോ അതിനാൽ ഈ ലെക്ചറിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ നമ്മൾ ശ്രമിക്കും അതിനാൽ ആദ്യം ഒരു പരാമർശം ഇന്റഗ്രൽ ഫംഗ്ഷൻ ഉണ്ട് ഈ ഇന്റെർവെല്ലിലെ ലെബസ്ഗെ ഇന്റഗ്രൽ ഫംഗ്ഷൻ −L L കൂടാതെ ഈ ഫംഗ്ഷൻ സാഹിത്യത്തിൽ നിലനിൽക്കുന്നു അതിന്റെ ഇന്റെർവെല്ലിൽ എല്ലായിടത്തും ഫൊറിയർ സീരീസ് ഇന്റർവെൽ −L L ൽ ഡൈവേർജ് ചെയ്യുന്നു അതിനാൽ നമ്മൾ ഏതെങ്കിലും പോയിന്റ് തിരഞ്ഞെടുക്കുകയും ഫൊറിയർ സീരീസിന്റെ തുക ഡൈവേർജ് ചെയ്യുകയും ചെയ്താൽ അത് ∞ ലേക്ക് പോകുന്നു കൂടാതെ അത്തരം ഉദാഹരണങ്ങളുണ്ട് എന്തൊക്കെയാണെന്നുള്ള വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല കാരണം അവ നിസ്സാര ഉദാഹരണങ്ങളല്ല പക്ഷേ അവയുടെ ഫോറിയർ സീരീസ് കൺവെർജ് ചെയ്യുന്നില്ല ഇന്റെർവെല്ലിൽ എല്ലായിടത്തും അത് ഡൈവേർജ് ചെയ്യുന്നു കൂടാതെ കണ്ടിന്യൂസ് ഫംഗ്ഷനുകൾ ഉണ്ട് ഫൊറിയർ സീരീസ് എണ്ണാവുന്ന പോയിന്റുകളിൽ ഡൈവേർജ് ചെയ്യുന്നു അതിനാൽ അത്തരം ഉദാഹരണങ്ങളും സാഹിത്യത്തിൽ നിലവിലുണ്ട് അവയുടെ ഫൊറിയർ സീരീസ് ഒരു ഘട്ടത്തിൽ കൺവെർജ് ചെയ്യും പക്ഷേ തുക ആ പോയിന്റിലെ ഫംഗ്ഷന്റെ മൂല്യത്തിന് തുല്യമല്ല അതിനാൽ എന്തായാലും ഈ ഉദാഹരണമാണ് നമ്മൾ കണ്ടത് അവസാനത്തേത് സീരീസ് കൺവെർജ് ചെയ്യുന്ന ഉദാഹരണങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു പക്ഷേ തുക ആ പോയിന്റിലെ ഫംഗ്ഷന് തുല്യമല്ല എന്നാൽ രസകരമായ കാര്യം ഇന്റെഗ്രേബ്ൾ ഫംഗ്ഷനുകൾ ഉണ്ട് അവയുടെ ഫൊറിയർ സീരീസ് നമുക്ക് എഴുതാം എന്നാൽ അവസാനം ഈ ഫോറിയർ സീരീസ് എല്ലായിടത്തും ഡൈവേർജ് ചെയ്യുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കും യഥാർത്ഥത്തിൽ കണ്ടിന്യൂസ് ഫംഗ്ഷനുകൾ ഉണ്ട് അതിനാൽ നമുക് നല്ല ഫംഗ്ഷനുകൾ ഉണ്ടെന്നതും അവയുടെ ഫൊറിയർ സീരീസ് എഴുതാൻ കഴിയുമെന്നതും രസകരമാണ് കൂടാതെ ഈ ഫൊറിയർ സീരീസ് എണ്ണാവുന്ന പോയിന്റുകളിൽ ഡൈവേർജ് ചെയ്യുന്നു അതിനാൽ ഈ കേസിൽ എല്ലാം സാധ്യമാണ് അതിനാൽ ഫൊറിയർ സീരീസ് കൺവെർജ് ചെയ്യുന്ന ഫംഗ്ഷന് നമുക് ചില നിബന്ധനകൾ ഉണ്ടായിരിക്കും മാത്രമല്ല അതും ചർച്ച ചെയ്യേണ്ട മൂല്യത്തിലേക്ക് കൺവെർജ് ചെയ്യുന്നു അതിനാൽ ഒരു പ്രശസ്തമായ കൺവേർജെൻസ് സിദ്ധാന്തമുണ്ട് തീർച്ചയായും ഈ വ്യവസ്ഥകൾ പാലിച്ചാൽ സീരീസ് തീർച്ചയായും കൺവെർജ് ചെയ്യും മാത്രമല്ല അത് ഏത് മൂല്യത്തിലേക്കാണോ കൺവെർജ് ചെയ്യുന്നത് അത് ഫലത്തിലൂടെ നമുക് ലഭിക്കും ഇതിനെ ഡിറിച്ലെറ്റ് സിദ്ധാന്തം എന്ന് വിളിക്കുന്നു അതിനാൽ f ഒരു പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഫൊറിയർ സീരീസ് എഴുതാൻ ഇത് വളരെ പ്രധാനമാണ് ഫൊറിയർ സീരീസ് എഴുതാൻ ഇത് പര്യാപ്തമാണെന്ന് നമ്മൾ ഇതിനകം കണ്ടിട്ടുണ്ട്അതിനാൽ ഇന്റർവെൽ −L L ൽ ഫംഗ്ഷൻ തീർച്ചയായും പീസ് വേസ് കണ്ടിന്യൂസ് ആണ് ഉദാഹരണത്തിന് എളുപ്പത്തിനായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് −L L ആണ് പക്ഷേ 0 L അല്ലെങ്കിൽ 02L നെക്കുറിച് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് അതിനാൽ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ഉണ്ട് അത് പീസ്വേസ് കണ്ടിന്യൂസ് ആണ് രണ്ടാമത്തെ വ്യവസ്ഥ f ന്റെ വൺ സൈഡഡ് ഡെറിവേറ്റീവുകളെക്കുറിച്ചാണ് അതിനാൽ പീസ്വേസ് കണ്ടിന്യൂസ് മാത്രമല്ല f ന്റെ വൺ സൈഡഡ് ഡെറിവേറ്റീവുകളും ആവശ്യമാണ് വൺ സൈഡഡ് ഡെറിവേറ്റീവുകൾ എന്തൊക്കെയാണ് ഒന്ന് ഇവിടെയുണ്ട് വലതു ഭാഗത്തെ ഡെറിവേറ്റീവ് limit h → 0 ഉം h പോസിറ്റീവും ആയി എടുക്കുന്നു അതിനാൽ h 0 fxh fxhആണ് അതിനാൽ ഇതാണ് റൈറ്റ് ഹാൻഡ് പരിധി അതിനാൽ ഈ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈ സീരീസിൽ −L L ൽ നിലവിലുണ്ടെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ ഈ L പരിഗണിക്കുന്നില്ല കാരണം നമ്മൾ സംസാരിക്കുന്നത് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിനെക്കുറിച്ചാണ് കൂടാതെ ഈ പോയിന്റിൽ നമ്മൾ അതിനോട് അടുക്കുകയാണെങ്കിൽ അത് x എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതിനാൽ ഇവിടെ നമ്മൾ അവസാനത്തെ പോയിന്റുകൾ ഒഴിവാക്കി അതിനാൽ ഈ പോയിന്റുകളിലെല്ലാം റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നിലനിൽക്കണം മറുവശത്ത് ഈ ഇന്റർവെൽ −L Lൽ ലെഫ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നിലനിൽക്കണം കാരണം നമ്മുടെ ഇന്റർവെൽ L വരെ ആണെങ്കിൽ ഇവിടെ L ഉണ്ട് അതിനാൽ ഈ ഘട്ടത്തിൽ നമുക്ക് ശരിയായ ഡെറിവേറ്റീവിനെക്കുറിച്ച് സംസാരിക്കാനാകില്ല ലെഫ്റ് ഡെറിവേറ്റീവിനെക്കുറിച്ച് മാത്രമേ നമുക്ക് സംസാരിക്കാനാകൂ ഇവിടെ ഈ കേസിൽ റൈറ്റ് ഡെറിവേറ്റീവിനെക്കുറിച്ച് മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയൂ അതിനാൽ നമുക് −L L ഉണ്ടെങ്കിൽ −L ൽ ക്ലോസ്ഡ് ഉം മറ്റേ അറ്റത്ത് L ൽ ഓപ്പൺ ഉം നമ്മൾ സംസാരിക്കുന്നത് റൈറ്റ് ഡെറിവേറ്റീവിനെക്കുറിച്ചാണ് അതേസമയം ഈ കേസിൽ നമ്മൾ ഈ അറ്റത്ത് ഇവിടെ ഓപ്പൺ ചെയ്യുകയും ഈ അറ്റത്ത് അത് ക്ലോസ്ഡ് ആയിരിക്കുകയും ചെയ്യുന്നു തുടർന്ന് നമ്മൾ സംസാരിക്കുന്നത് ലെഫ്റ് ഡെറിവേറ്റീവിനെക്കുറിച്ചാണ് അതിനാൽ ഫംഗ്ഷൻ പീസ്വേസ് കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമല്ല ഒരു വശത്തെ ഡെറിവേറ്റീവുകളും ഉണ്ടെങ്കിൽ അതിനർത്ഥം ഈ രണ്ട് സംഖ്യകൾ ഈ രണ്ട് പരിധികൾ നിലവിലുണ്ട് ഓരോ L നും ഈ ഇന്റെർവെല്ലിൽ അവ പരിമിതമാണ് അപ്പോൾ നമുക്ക് അവസാന പോയിന്റുകൾ ഒഴികെയുള്ള ഏത് x ∈ L L ഉം എടുക്കാംഅതിർത്തി പോയിന്റുകളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുംഅതിനാൽ ഓരോ x നും ഫൊറിയർ സീരീസ് കൺവെർജ് ചെയ്യുന്നു അത് ശരാശരി മൂല്യത്തിലേക്ക് കൺവെർജ് ചെയ്യുന്നു അതിനാൽ ഇത് ഫൊറിയർ സീരീസ് ആണ് വലത് വശത്ത് നൽകിയിരിക്കുന്ന ഫംഗ്ഷൻ f ന്റെ ഫൊറിയർ സീരീസ് ആണ് ഇത് ഈ ശരാശരി മൂല്യത്തിലേക്ക് കൺവെർജ് ചെയ്യും അതിനാൽ ഫംഗ്ഷൻ പീസ്വേസ് കണ്ടിന്യൂസ് ആണ് അതിനാൽ ഇന്റെർവെല്ലിലെ ഒരു നിശ്ചിത പോയിന്റിൽ ഇത് കണ്ടിന്യൂസ് ആയിരിക്കില്ല പക്ഷേ എന്ത് മൂല്യമാണ് ഇത് ഈ ശരാശരി മൂല്യമായ fxf2 ലേക്ക് കൺവെർജ് ചെയ്യുമ്പോൾ നമുക് ലഭിക്കുന്നത് fx എന്നത് x ലെ f ന്റെ റൈറ്റ് ഹാൻഡ് പരിധിയും f എന്നത് x ലെ f ന്റെ ലെഫ്റ് ഹാൻഡ് പരിധിയുമാണ് ഇവ പരിമിതപ്പെടുത്തുന്ന മൂല്യങ്ങൾ മാത്രമാണ് ഡെറിവേറ്റീവ് അല്ല ഓർക്കുക ഈ പരിമിതികൾ നിലനിൽക്കുന്നു കാരണം നമ്മൾ സംസാരിക്കുന്നത് പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷനെക്കുറിച്ചാണ് മാത്രമല്ല പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷന് ഈ പരിധികൾ തീർച്ചയായും നിലനിൽക്കും അതിനാൽ ഇവിടെ നമുക്കുളള ഒരു നല്ല കൺവെർജെൻസ് ഫലം എന്തെന്നാൽ ഈ സീരീസ് നേരിട്ട് f എന്നതിലേക്കല്ല x എന്ന പോയിന്റിലെ f ന്റെ ശരാശരി മൂല്യത്തിലേക്ക് കൺവെർജ് ചെയ്യും കൂടാതെ ഇപ്പോഴത്തെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് പീസ്വേസ് കണ്ടിന്യൂറ്റിയും വൺ സൈഡഡ് ഡെറിവേറ്റീവ്സും അതിനാൽ ഈ രണ്ടു വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഈ ഫൊറിയർ സീരീസിന് തുല്യമോ അല്ലെങ്കിൽ ഈ മൂല്യത്തിലേക്ക് കൺവെർജ് ചെയ്യുന്നതോ ആയ ഫലം നമുക് ഉണ്ട് ഇതാണ് ഫലം ഇന്നത്തെ ഈ ലെക്ചറിന്റെ പ്രധാന ഫലം അതിനാൽ ഇവിടെ ഇന്റെർവെല്ലിന്റെയും അവസാന പോയിന്റ് ±L ന്റെയും ഉള്ളിലുള്ള ഈ പോയിന്റുകളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് നമുക് രണ്ട് അവസാന പോയിന്റുകളുണ്ട് ഒന്ന് L ഉം പിന്നെ −L ഉം ഈ രണ്ട് അവസാന പോയിന്റുകളിലെ സീരീസും ഈ ശരാശരി മൂല്യങ്ങളിലേക്ക് വീണ്ടും കൺവെർജ് ചെയ്യും എന്താണ് ഈ ശരാശരി മൂല്യങ്ങൾ അതിനാൽ നമ്മുടെ ഇന്റർവെൽ L മുതൽ L വരെയാണെന്ന് കരുതുക ഇവിടെ ഈ f L− ൽ നമ്മൾ ഇടത് പരിധിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ f L ൽ നമ്മൾ സംസാരിക്കുന്നത് വലത് പരിധിയെക്കുറിച്ചാണ് അതിനാൽ നമ്മൾ ഈ രണ്ട് പരിധികൾ എടുക്കുകയും തുടർന്ന് ശരാശരി എടുക്കുകയും ചെയ്യുന്നു അതിനാൽ ഇവിടെയും യഥാർത്ഥത്തിൽ അതേ അവസ്ഥയാണ് അതിനാൽ നമ്മൾ രണ്ട് അവസാന പോയിന്റുകൾ എടുക്കും തീർച്ചയായും പരിമിതപ്പെടുത്തുന്ന മൂല്യങ്ങളും എടുക്കും ഇവിടെ നമ്മൾ ലെഫ്റ് ഹാൻഡ് മൂല്യങ്ങൾ എടുക്കും ഇവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് മൂല്യങ്ങൾ എടുക്കും തുടർന്ന് വീണ്ടും നമ്മൾ ശരാശരി എടുക്കും അതിനാൽ ചുരുക്കത്തിൽ ഏത് പോയിന്റിലും അത് അവസാന പോയിന്റാണെങ്കിലും അല്ലെങ്കിൽ അതിനിടയിൽ എവിടെയെങ്കിലും ഒരു പോയിന്റാണെങ്കിലും അത് എല്ലായ്പ്പോഴും കൺവെർജ് ചെയ്യും ഫോറിയർ സീരീസ് ശരാശരി മൂല്യത്തിലേക്ക് കൺവെർജ് ചെയ്യും എന്തുകൊണ്ടാണ് അവസാന പോയിന്റിൽ നമ്മൾ മറ്റ് അറ്റങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു കാരണം നമ്മൾക്ക് പീരിയോഡിക് ഫംഗ്ഷൻ ഉണ്ട് ഈ ഫംഗ്ഷൻ ആ പോയിന്റിൽ വീണ്ടും ആവർത്തിക്കും അതിനാൽ ഇവിടെ നമുക്ക് ഒരു ഫംഗ്ഷൻ നൽകിയിട്ടുണ്ടെന്ന് കരുതുക ഉദാഹരണത്തിന് ഇത് L മുതൽ L വരെ ഇത് പീരിയോഡിക് ആയതിനാൽ അതിനാൽ അത് വീണ്ടും ആവർത്തിക്കും അല്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു മികച്ച ഉദാഹരണം എടുക്കാം ആ പോയിന്റിൽ കണ്ടിന്യൂയിറ്റി ഇല്ല അതിനാൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ഈ ഫംഗ്ഷൻ നമ്മളുടെ പക്കലുണ്ടെന്ന് കരുതുക എന്നാൽ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും എന്നാണ് അതിനാൽ ഇവിടെ ഈ മൂല്യം ഇതിനോടൊപ്പം പോകും തുടർന്ന് വീണ്ടും നമുക്ക് ഇത് അവിടെ ഉണ്ടായിരിക്കണം അതിനാൽ ഈ അവസാന പോയിന്റുകളിൽ നമ്മൾ ഒരു പരിധിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ ഈ അറ്റത്ത് നിന്ന് ഇടത് പരിധി മറ്റേ അറ്റത്ത് നിന്ന് വലത് പരിധി അതിനാൽ ഫംഗ്ഷന്റെ പീരിയോഡിസിറ്റി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അത് വീണ്ടും അവസാന പോയിന്റുകളിലെ ശരാശരി മൂല്യമാണ് അതിനാൽ ഈ അവസാന പോയിന്റുകൾ നമുക് ഉണ്ട് കാരണം അവസാന പോയിന്റുകളിൽ സീരീസ് ലളിതമാക്കും അതിനാൽ നമ്മൾ ഈ അവസാന പോയിന്റുകൾ അവിടെ കൊടുക്കുമ്പോൾ ഇത് sin nπ ആയിരിക്കും അതിനാൽ ഇത് 0 ആകും തുടർന്ന് ഇവിടെ അത് −1n ആയിത്തീരും തുടർന്ന് ഈ an′s അവിടെയുണ്ട് അതിനാൽ ഇത് അതിന്റെ പീരിയോഡിസിറ്റി കണക്കിലെടുത്ത് ഫംഗ്ഷന്റെ ശരാശരി മൂല്യത്തിന് തുല്യമാണ് ശരി അതിനാൽ ഇതാണ് കൺവെർജെൻസ് സിദ്ധാന്തം അല്ലെങ്കിൽ ഡിറിച്ലെറ്റ് സിദ്ധാന്തം മാത്രമല്ല ഇത് രണ്ടും വീണ്ടും ശ്രദ്ധിക്കേണ്ട മതിയായ വ്യവസ്ഥയാണ് പീസ്വേസ് കണ്ടിന്യൂറ്റിയും വൺ സൈഡഡ് ഡെറിവേറ്റീവ്സും ഈ സീരീസ് ഓരോ x നും കൺവെർജ് ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ഈ രണ്ട് വ്യവസ്ഥകളും മതിയാകും ഇത് ഓരോ x ഉം പ്രധാനമാണ് കാരണം നമ്മൾ ഇവിടെ x പരിഹരിക്കുന്നു അതിനാൽ x ന്റെ ഓരോ മൂല്യത്തിനും ഫോറിയർ സീരീസിന്റെ മൂല്യവും ഈ ട്രിഗണോമെട്രിക് സീരീസിന്റെ മൂല്യവും ശരാശരി മൂല്യത്തിന് തുല്യമായിരിക്കും ശരി ചില പരാമർശങ്ങൾ x എന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ കൺവെർജെൻസിനെക്കുറിച്ച് സംസാരിക്കുന്ന പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ആ കേസിൽ ഈ പരിധി f x f x− ആണ് കാരണം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് രണ്ട് പരിധികളും ഫംഗ്ഷൻ മൂല്യത്തിന് തുല്യമായിരിക്കണം അതിനാൽ ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ സ്വാഭാവികമായും ഈ രണ്ട് പരിധികളും തുല്യമായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഈ സീരീസ് ശരാശരി മൂല്യത്തിലേക്ക് കൺവെർജ് ചെയ്യില്ല കാരണം ഇത് യഥാർത്ഥത്തിൽ ശരാശരി മൂല്യം fxf2 ആണ് എന്നാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇത് f ന് തുല്യമായിരിക്കും കൂടാതെ ഇതും f ന് തുല്യമായിരിക്കും അതിനാൽ നമുക് 2 f2 ലഭിക്കും ഇതും f ആണ് അതിനാൽ ആ കേസിൽ x എന്നത് കണ്ടിന്യൂറ്റിയുടെ ഒരു പോയിന്റാണെങ്കിൽ ഈ കേസിൽ സീരീസ് നേരിട്ട് f ലേക്ക് കൺവെർജ് ചെയ്യും അതിനാൽ നമുക് ലഭിച്ച മറ്റൊരു ഫലമുണ്ട് ഫംഗ്ഷന്റെ സീരീസിന്റെ കണ്ടിന്യൂറ്റി പോയിന്റിൽ ഇടത് വലത് ഡെറിവേറ്റീവുകൾ നിലനിൽക്കുമ്പോൾ ഈ കേസിൽസീരീസ് നേരിട്ട് f ലേക്ക് കൺവെർജ് ചെയ്യും അതിനാൽ അതാണ് പ്രധാന വ്യവസ്ഥ അവ തീർച്ചയായും മതിയായ വ്യവസ്ഥകളാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ f കണ്ടിന്യൂസ് ആണെങ്കിൽ ഉദാഹരണത്തിന് f പൂർണ്ണമായും കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനർത്ഥം അവസാന പോയിന്റുകളിലും മാത്രമല്ല ഫംഗ്ഷന്റെ മൂല്യം അവസാന പോയിന്റുകളിലും യോജിക്കുന്നു ഒരു വശത്തെ ഡെറിവേറ്റീവുകളും നിലനിൽക്കുന്നു അപ്പോൾ തുല്യത എല്ലാ x നും തുല്യമാണ് അതിനാൽ നമുക്ക് ഇപ്പോൾ എന്താണ് ഉള്ളത് f കണ്ടിന്യൂസും അവസാന പോയിന്റുകളിലെ ഫംഗ്ഷന്റെ മൂല്യവും ഒന്നുതന്നെയാണെങ്കിൽ അതായത് നമ്മൾ ഫംഗ്ഷന്റെ പീരിയോഡിസിറ്റി എടുക്കുമ്പോൾ മൊത്തത്തിലുള്ള പ്രവർത്തനം കണ്ടിന്യൂസ് ആയി മാറും ഉദാഹരണത്തിന് ഞാൻ മുമ്പ് ചർച്ച ചെയ്തതുപോലെ ഇവിടെ ഇതാണ് അതിനാൽ നമുക്ക് ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ L മുതൽ L വരെ ഉണ്ടെങ്കിൽ അവസാന പോയിന്റുകളും യോജിക്കുന്നു കാരണം ഫംഗ്ഷന്റെ ഈ പീരിയോഡിസിറ്റി പരിഗണിക്കുകയാണെങ്കിൽ അത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആയി മാറുന്നു അതിനാൽ അടിസ്ഥാനപരമായി എല്ലായിടത്തും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അതിനാൽ f ഇന്റർവെൽ −L L ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമല്ല അവസാന പോയിന്റുകളിലും ഫംഗ്ഷൻ മൂല്യങ്ങൾ തുല്യമാണെങ്കിൽ ഇത് −L ആണ് ഇത് L ആണ് അതിനാൽ ഇവ തുല്യമാണ് ഈ വൺ സൈഡഡ് ഡെറിവേറ്റീവുകൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അവ ഉണ്ടെങ്കിൽ ആ കേസിൽ തുല്യത എല്ലാ x നും ബാധകമാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും x എടുക്കാം ഈ തുല്യത നിലനിൽക്കും മറ്റൊരു പരാമർശം മുകളിലുള്ള സിദ്ധാന്തത്തിൽ ഈ വ്യവസ്ഥകൾ മതിയായ വ്യവസ്ഥകളാണ് അതിനാൽ നമ്മൾ ചർച്ച ചെയ്ത വ്യവസ്ഥകൾ വൺ സൈഡഡ് ഡെറിവേറ്റീവുകളും കണ്ടിന്യൂസും ആണ് ഇത് ആവശ്യമായ വ്യവസ്ഥകളല്ല മതിയായ വ്യവസ്ഥകളാണ് അതിനാൽ ആ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ അത് കൺവെർജ് ചെയില്ലെന്ന് നമുക് പറയാൻ കഴിയില്ല പക്ഷേ അവ മതിയാകും ആ വ്യവസ്ഥകൾ പാലിക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായും കൺവെർജ് ചെയ്യും അതിനാൽ ഒരാൾക്ക് ഈ വ്യവസ്ഥകൾ മാറ്റിസ്ഥാപിക്കാം പീസ്വൈസ് കണ്ടിന്യൂറ്റിയും വൺ സൈഡഡ് ഡെറിവേറ്റീവുകളും കുറച്ചുകൂടി നിയന്ത്രിത വ്യവസ്ഥകളുള്ള പീസ്വൈസ് സ്മൂത്തനേസിലൂടെ നിങ്ങൾ ഇത് പല പാഠപുസ്തകങ്ങളിലും കണ്ടെത്തും അതിനാൽ പീസ്വൈസ് കണ്ടിന്യൂറ്റിയും വൺ സൈഡഡ് ഡെറിവേറ്റീവും പറയുന്നതിനുപകരം നമുക്ക് ഇത് പീസ്വൈസ് സ്മൂത്തനേസിന്റെ കൂടുതൽ നിയന്ത്രിത വ്യവസ്ഥ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം എന്താണ് പീസ്വൈസ് സ്മൂത്തനേസ് നമ്മൾ അത് സംക്ഷിപ്തമായി ഇവിടെ ചർച്ച ചെയ്യും അതിനാൽ ഒരു ഫംഗ്ഷൻ ഇന്റർവെൽ−L L ൽ സുഗമമായിരിക്കുമെന്ന് പറയുകയാണെങ്കിൽ അത് പീസ്വൈസ് കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഇന്റെർവെല്ലിൽ അതിന് പീസ്വൈസ് കണ്ടിന്യൂസ് ആയ ഡെറിവേറ്റീവ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പീസ്വൈസ് കണ്ടിന്യൂറ്റി എന്നത്കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അതിനാൽ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടെത്താൻ കഴിയും ഈ മേഖലയിൽ അതിന്റെ ഡെറിവേറ്റീവും കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും പീസ്വൈസ് കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമല്ല ഫംഗ്ഷനും പീസ്വൈസ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷനെ വിളിക്കുന്നത് പീസ്വൈസ് സ്മൂത് എന്നാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് ഈ പീസ്വൈസ് കണ്ടിന്യൂറ്റിക്കും വൺ സൈഡഡ് ഡെറിവേറ്റീവിനുപകരം മുമ്പത്തെ സിദ്ധാന്തത്തിൽ ചെയ്തതുപോലെ ഇത് പീസ്വൈസ് സ്മൂത്ത് ആയി മാറ്റിസ്ഥാപിക്കാം അതിനാൽ ഫംഗ്ഷൻ സുഗമമാണെങ്കിൽ ഈ സീരീസ് ആ ശരാശരി മൂല്യത്തിലേക്ക് കൺവെർജ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഈ പീസ്വൈസ് കണ്ടിന്യൂറ്റിക്കും വൺ സൈഡഡ് ഡെറിവേറ്റീവിനും പീസ്വൈസ് സ്മൂത്തനെസ്സുമായി എന്താണ് ബന്ധം ഇത് കുറച്ചുകൂടി നിയന്ത്രിതമാണെന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് പീസ്വൈസ് സ്മൂത്തനെസിന്റെ വ്യവസ്ഥ കൊടുക്കുമ്പോൾ ഇത് കൂടുതൽ നിയന്ത്രിതമാണ് ഇനിപ്പറയുന്ന ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഇത് ഇപ്പോൾ വ്യക്തമാകും അതിനാൽ ഉദാഹരണത്തിന് ഈ ഉദാഹരണം x2sin 1 x x ≠ 0 അല്ലാത്തപക്ഷം 0 നോക്കാം ആ കേസിൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എല്ലായിടത്തും ഉണ്ടെന്നും അതിനാൽ ഫംഗ്ഷന് വൺ സൈഡഡ് ഡെറിവേറ്റീവുകൾ ഉണ്ടെന്നും നമുക്ക് എളുപ്പത്തിൽ കാണിക്കാനാകും നോക്കൂ ഫംഗ്ഷന് എല്ലായിടത്തും ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഇടത് വലതു ഡെറിവേറ്റീവും ഉണ്ട് കാരണം അതാണ് വിശദീകരണം ഇടത് ഡെറിവേറ്റീവ് നിലവിലുണ്ടെങ്കിൽ വലത് ഡെറിവേറ്റീവ് നിലനിൽക്കുന്നു അവ തുല്യമാണ് പിന്നെ ഡെറിവേറ്റീവ് നിലനിൽക്കും അതിനാൽ ഇവിടെ ഈ ഫംഗ്ഷനിൽ പ്രശ്നം x 0 ൽ ആണ് എന്നാൽ 0 ലെ ഡെറിവേറ്റീവും നിലവിലുണ്ടെന്ന് നമുക്ക് കാണിക്കാൻ കഴിയും കാരണം നമുക്ക് അതിന്റെ വിശദീകരണം ഉള്ളത് എന്തെന്നാൽ h0 f0h fh limit h → 0 ക്ക് തുല്യമാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നത് പ്രശ്നമില്ല അതിനാൽ ഇവിടെ f അതായത് ഈ h2sin 1 h ഉം f 0 ഉം ആണ് കൂടാതെ നമുക് h ഉണ്ട് അപ്പോൾ നമുക് ഈ h0 h2sin 1h 0hലഭിക്കും കൂടാതെ ഈ h ഉം h ഉം റദ്ദാക്കപ്പെടും കൂടാതെ h → 0 ആകുമ്പോൾ അതിനാൽ ഇത് ഇവിടെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു h → 0അതിനാൽ ഇത് 0 ആകും അതിനാൽ ഈ പരിധി നിലനിൽക്കുന്നു അതായത് ഫംഗ്ഷന് 0 ലും ഡെറിവേറ്റീവ് ഉണ്ട് മറ്റെല്ലാ പോയിന്റുകളിലും നമുക്ക് ഇത് എളുപ്പത്തിൽ വേർതിരിച്ചറിയാൻ കഴിയും നമുക്ക് ഡെറിവേറ്റീവ് കണ്ടെത്താനാകും അതിനാൽ ഈ ഫംഗ്ഷന് എല്ലായിടത്തും ഡെറിവേറ്റീവ് ഉണ്ട് അതായത് ഈ ഫംഗ്ഷന് ഇടത് വലത് ഡെറിവേറ്റീവും ഉണ്ട് എന്നിരുന്നാലും ഇത് പീസ്വൈസ് സ്മൂത്ത് അല്ലന്ന് നമ്മൾ നിരീക്ഷിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പീസ്വൈസ് സ്മൂത്തനെസ്സ് ഫംഗ്ഷന് കൂടുതൽ നിയന്ത്രണങ്ങൾ നൽകുന്നു അതിനാൽ ഈ ഫംഗ്ഷൻ ഇടതു വലതു വശത്തെ പോയിന്റുകളിലും ഉണ്ടെങ്കിലും ഈ ഫംഗ്ഷൻ പീസ്വൈസ് സ്മൂത്ത് അല്ലന്ന് നമുക്ക് എളുപ്പത്തിൽ കാണാവുന്ന ഒരു ഉദാഹരണമാണിത് വാസ്തവത്തിൽ ഇതൊരു ഡിഫറെൻഷ്യൽ ഫംഗ്ഷൻ ആണ് ഡെറിവേറ്റീവ് എല്ലായിടത്തും നിലനിൽക്കുന്നു പക്ഷേ അത് ഇവിടെപീസ്വൈസ് സ്മൂത്ത് കാരണം ഇവിടെ ഈ limit f′ഉം f′ ഉം പീസ്വൈസ് സ്മൂത്ത് അല്ല അതിനാൽ നിങ്ങൾ ഇവിടെ f ′ കണക്കുകൂട്ടുകയാണെങ്കിൽ അതായത് x 0 ൽ ഡെറിവേറ്റീവ് 0 ആണെന്നാണ് നമ്മൾ ഇപ്പോൾ വിലയിരുത്തിയത് x ≠ 0ൽ നമുക് ഇത് ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ കഴിയും ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് നേരിട്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻകഴിയും അതിനാൽ നമുക് ഇവിടെ എല്ലായിടത്തും ഡെറിവേറ്റീവ് f ′ ലഭിച്ചു x ≠ 0 ആയിരിക്കുമ്പോൾ ഇത് ഇത് നൽകുന്നു x 0 ആയിരിക്കുമ്പോൾ ഇത് നൽകുന്നത് വെറും 0 ആണ് അതിനാൽ ഈ കേസിൽ ഈ പരിധി നിലവിലില്ല ഈ ഫംഗ്ഷന്റെ പരിധി x → 0 ആയി നമ്മൾ പരിഗണിക്കുന്നു അതിനാൽ ഇവിടെ നിന്ന് x → 0 ഈ x → 0 cos 1 x നിലവിലില്ലാത്തപ്പോൾ നമ്മൾ കണക്കുകൂട്ടേണ്ടതുണ്ട് അതിനാൽ x → 0 ആയിരിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഈ പരിധി നിലവിലില്ല ഈ f ′ x → 0 ആയി നിലനിൽക്കുന്നില്ല അതിനാൽ ഇത് പീസ്വൈസ് സ്മൂത്ത് ഫംഗ്ഷൻ അല്ല കാരണം ഡെറിവേറ്റീവ് പീസ്വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കില്ല പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് പീസ്വൈസ് അല്ല ഇത് പീസ്വൈസ് കണ്ടിന്യൂസ് അല്ല ഈ f പീസ്വൈസ് കണ്ടിന്യൂസ് അല്ല അതിനാൽ ഇത് പീസ്വൈസ് സ്മൂത്ത് അല്ല ഈ f പീസ്വൈസ് സ്മൂത്ത് അല്ല എന്നിരുന്നാലും ഒരു ഫംഗ്ഷൻ പീസ്വൈസ് സ്മൂത്ത് ആണെങ്കിൽ ഇടത് വലത് ഡെറിവേറ്റീവുകൾ ഉണ്ടെന്ന് എളുപ്പത്തിൽ കാണിക്കാനാകും മറുവശത്ത് ഫംഗ്ഷൻ പീസ്വൈസ് സ്മൂത്ത് ആണെങ്കിൽ ഇടത് വലത് ഡെറിവേറ്റീവ് ഉണ്ടെന്ന് നമുക്ക് കാണിക്കാം അതിനായി f എന്നത് ഒരു പീസ്വൈസ് സ്മൂത്ത് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പരിഗണിക്കാം അതായത് ഈ പരിമിതികളെല്ലാം നിലനിൽക്കുന്നു ഡെറിവേറ്റീവ് പീസ്വൈസ് കണ്ടിന്യൂസ് ആണ് ഈ പരിധി a ∈ −L L ന്റെ എല്ലാ പോയിന്റുകൾക്കും ഉണ്ടായിരിക്കണം ഈ പരിധി നിലവിലുണ്ടെങ്കിൽ ഈ പരിധി xaf′ എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഇപ്പോൾ നമുക്ക് ഈ രണ്ട് പരിധികളും പരസ്പരം മാറ്റാനാകും എന്ത് സംഭവിക്കും അതിനാൽ നമ്മൾ പരസ്പരം മാറ്റുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇവിടെയാണ് h → 0 പിന്നീട് ഇത് limit x → a കൂടാതെ ഇവിടെ limit x → a fah fah ആകും കൂടാതെ h0fah fahea യിലെ f ന്റെ വലതു ഡെറിവേറ്റീവ് ആണ് അതിനാൽ ഈ ഫംഗ്ഷൻ പീസ്വൈസ് സ്മൂത്ത് ആണെങ്കിൽ ഫംഗ്ഷൻ പീസ്വൈസ് സ്മൂത്തും വലതു ഡെറിവേറ്റീവും നിലനിൽക്കും അതുപോലെ ഇടത് ഡെറിവേറ്റീവും നിലനിൽക്കുന്നുവെന്ന് നമുക്ക് കാണിക്കാനാകും അതിനാൽ ഈ ഉദാഹരണത്തിൽ നമ്മൾ കണ്ടത് വൺ സൈഡഡ് ഡെറിവേറ്റീവിന്റെ നിലനിൽപ്പിനൊപ്പം പീസ്വൈസ് കണ്ടിന്യൂയിറ്റിയേക്കാൾ ശക്തമായത് പീസ്വൈസ് സ്മൂത്തനെസ്സാണ് അതിനാൽ ഈ സിദ്ധാന്തം പ്രയോഗിക്കുന്നതിന് ഇത് ഒരു ഉദാഹരണം മാത്രമാണ് അതിനാൽ ഈ ലെക്ചറിന്റെ തുടക്കത്തിൽ ചർച്ച ചെയ്ത ഈ ഉദാഹരണം നമുക്ക് ഉണ്ട് ഈ ഫംഗ്ഷൻ പീസ്വൈസ് കണ്ടിന്യൂസ് ആണ് കാരണം രണ്ട് വൺ സൈഡഡ് ഡെറിവേറ്റീവുകളും നിലനിൽക്കുന്നുണ്ട് അതിനാൽ നമുക്ക് ഇത് വിലയിരുത്താനും ഇത് വിലയിരുത്താനും കഴിയും അവ രണ്ടും ഈ കേസിൽ നിലനിൽക്കുന്നു അതിനാൽ ഇപ്പോൾ ഇത് നൽകിയ ഫോറിയർ സീരീസ് ഡിറിച്ലെറ്റ് സിദ്ധാന്തമനുസരിച് നമ്മൾ എന്താണ് ചർച്ച ചെയ്തെന്ന് വച്ചാൽ സീരീസ് ശരാശരി മൂല്യത്തിലേക്ക് കൺവെർജ് ചെയ്യും കാരണം x 0 ൽ നമ്മൾ ശരാശരി മൂല്യം എടുക്കും ഒരു വശത്ത് ഇവിടെ നമുക്ക് x 0 ഉണ്ട് മൂല്യം 1 ആണ് മറുവശത്ത് നമ്മൾ പരിധി എടുക്കുമ്പോൾ അത് cos x ഉണ്ട് x 0 ലേക്ക് പോകുമ്പോൾ അത് −1 ആകും അതിനാൽ നമുക്ക് −1 ഉണ്ട് കൂടാതെ നമുക് 1 ഉണ്ട് അതിനാൽ നമ്മൾff02 പരിഗണിക്കണം അതിനാൽ f0 1 ആണ് f0 − −1 ആണ് ഇതിനൊപ്പം 0 കൂട്ടിച്ചേർക്കും അതിനാൽ ഈ മൂല്യം 0 നമുക്ക് ലഭിക്കുന്നു ഇത് ഈ ലെക്ചറിന്റെ തുടക്കത്തിൽ ഞങ്ങൾ അവിടെ ചർച്ച ചെയ്ത പ്ലോട്ടിൽ നിന്നും ദൃശ്യമായിരുന്നു ഇതൊക്കെയാണ് ഈ ലെക്ചർ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിച്ച റഫറൻസുകൾ അതിനാൽ ഇവിടെ നമ്മൾ പീസ്വൈസ് കണ്ടിന്യൂറ്റിയും വൺ സൈഡഡ് ഡെറിവേറ്റീവുകളുടെ നിലനിൽപ്പുമാണ് ചർച്ച ചെയ്തത് അതിനാൽ ഇത് f ന്റെ കൺവെർജൻസിനെ സൂചിപ്പിക്കുന്നു ഈ സീരീസിന്റെ മൂല്യം സീരീസിന്റെ ആകെത്തുക ശരാശരി മൂല്യത്തിന് തുല്യമായിരിക്കുമെന്നും ആ x ൽ ഫംഗ്ഷൻ പീസ്വൈസ് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ആ പ്രത്യേക പോയിന്റിലെ ഫംഗ്ഷൻ മൂല്യമായിരിക്കുമെന്നും കൺവെർജൻസ് പറയുന്നു അതിനാൽ ഈ ലെക്ചറിന് ഇത് പര്യാപ്തമായിരുന്നു ഇവിടെ ഓരോ x നും x ന്റെ ഓരോ മൂല്യത്തിനും നമുക്ക് തുക f അല്ലെങ്കിൽ ഈ ശരാശരി മൂല്യത്തിന് തുല്യമാണെന്ന് ലഭിക്കുന്നു കൺവെർജൻസിനെക്കുറിച്ചുള്ള കൂടുതൽ ആശയങ്ങൾ നമുക് അടുത്ത ലെക്ചറിൽ ചർച്ച ചെയ്യാം അപ്പോൾ ഇതിനെക്കുറിച്ചു ഇത്രമാത്രം കേട്ടിരുന്ന എല്ലാര്ക്കും നന്ദി